ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ ഒരു പ്രവർത്തന ആംപ്ലിഫയറിന്റെ കൂടുതൽ സവിശേഷതകൾ നമ്മൾ കാണും ഇപ്പോൾ വരെ ഒരു ഓപ് ആമ്പിന്റെ ബ്ലോക്ക് ഡയഗ്രം ഉൾപ്പെടെ ഒരു പ്രവർത്തന ആംപ്ലിഫയറിന്റെ ചില സവിശേഷതകൾ നമ്മൾ കണ്ടു ഇൻപുട്ട് ബയസ് കറന്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും നമ്മൾ പരിഹരിച്ചു അതിനാൽ പ്രവർത്തന ആംപ്ലിഫയറിന്റെ കുറച്ച് സവിശേഷതകൾ കൂടി നമുക്ക് നോക്കാം അത് ഈ പ്രത്യേക മൊഡ്യൂളിന്റെ അവസാനമായിരിക്കും അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ഒപ് ആമ്പുകളുടെ സർക്യൂട്ടുകൾ തുടരും അതിനാൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക യാഥാർത്ഥ്യത്തെ ലളിതവൽക്കരിക്കുന്ന അനുമാനങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് യാഥാർത്ഥ്യബോധമുള്ള കുറച്ച് അനുമാനങ്ങളുണ്ട് നമ്മൾ കുറച്ചൊക്കെ അനുമാനിക്കും ആദ്യത്തേത് 0 ഇൻപുട്ട് കറന്റാണ് ഇത് ഒരു യാഥാർത്ഥ്യവും ലളിതവുമായ അനുമാനമാണ് രണ്ട് ഇൻപുട്ട് ടെർമിനലുകളും വലിക്കുന്ന കറൻറ് 0 ആണെന്നാണ് ആദ്യത്തെ അനുമാനം ഇൻപുട്ട് ടെർമിനലുകൾ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നമുക്ക് രണ്ട് ടെർമിനലുകൾ ഉണ്ട് ഇൻവെർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലും നമുക്ക് ഔട്ട്പുട്ട് ടെർമിനലും ഉണ്ട് ടെർമിനലുകൾ വിപരീതമോ അല്ലാത്തതോ ഉപയോഗിച്ച് വലിച്ച കറന്റ് 0 ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു വാസ്തവത്തിൽ ഇൻപുട്ട് ടെർമിനൽ വലിച്ച കറന്റ് വളരെ ചെറുതാണ് അത് ഇപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് ബയസ് കറന്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്നിവ മനസിലാക്കുമ്പോൾ വിപരീത വിപരീതമല്ലാത്ത ടെർമിനലുകളിലേക്ക് ഒഴുകുന്ന വളരെ ചെറിയ ഒരു കറന്റ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇത് മൈക്രോആംബിയറുകൾ മുതൽ നാനോആംബിയറുകൾ വരെയുള്ള ക്രമത്തിലാണ് അതിനാൽ 0 ഇൻപുട്ട് കറന്റ് അനുമാനിക്കുന്നത് യാഥാർത്ഥ്യമാണ് ഒപ് ആമ്പിലെ രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആശയം വെർച്വൽ ഗ്രൌണ്ടാണ് എന്താണ് വെർച്വൽ വെർച്വൽ എന്നാൽ യഥാർത്ഥമല്ല അതിനാൽ അതെന്താണ് ഇൻവെർട്ട് ചെയ്യാത്തതും ഇൻവെർട്ട് ചെയ്യുന്നതുമായ ഇൻപുട്ട് ടെർമിനലുകൾ തമ്മിലുള്ള ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസം Vd അടിസ്ഥാനപരമായി 0 എന്നാണ് ഇതിനർത്ഥം ഇൻപുട്ട് വോൾട്ടേജ് കുറച്ച് വോൾട്ടുകളാണെങ്കിലും വലിയ ഓപ്പൺ ലൂപ്പ് നേട്ടം കാരണം ഇൻപുട്ട് ടെർമിനലുകളിലെ വോൾട്ടേജ് വ്യത്യാസം Vd യുടെ മൂല്യം ഏകദേശം 0 ആണ് അപ്പോൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് Vd എന്തിന് തുല്യമായിരിക്കും ഡിഫറൻഷ്യൽ വോൾട്ടേജ് Vd നോൺഇൻവർട്ടിംഗ് ടെർമിനലിൽ വോൾട്ടേജ് V യും ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വോൾട്ടേജ് V യും തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഇത് ഡിഫറൻഷ്യൽ വോൾട്ടേജാണ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് അടിസ്ഥാനപരമായി 0 ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇത് അടിസ്ഥാനപരമായി 0 ആണെങ്കിൽ ഇത് വ്യക്തമാണ് കാരണം ഇൻപുട്ട് വോൾട്ടേജ് കുറച്ച് വോൾട്ട് ആണെങ്കിലും വലിയ op amp നേട്ടം കാരണം വോൾട്ടേജ് വ്യത്യാസം Vd എല്ലായ്പ്പോഴും 0 ആയിരിക്കും അതിനാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും ലീനിയർ പ്രവർത്തന പരിധിയിൽ രണ്ട് ഇൻപുട്ട് ടെർമിനലുകൾക്കിടയിൽ ഒരു വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും വോൾട്ടേജുകൾ തുല്യമാണെന്നും ഇൻപുട്ട് ടെർമിനലുകളിൽ നിന്ന് നിലത്തേക്ക് വൈദ്യുത പ്രവാഹമൊന്നുമില്ലെന്നും അർത്ഥം അതിനാൽ ഞാൻ ഒരു സർക്യൂട്ട് വരയ്ക്കുകയും എനിക്ക് ഇവിടെ നിലമുണ്ടെങ്കിൽ ഈ ടെർമിനൽ മൈനസും ഇത് പ്ലസും ആണ് ഇത് V ആണ് ഇത് V ആണെന്ന് പറയാം ഇത് വെർച്വൽ ഗ്രൌണ്ടിലാണ് കാരണം ഇത് നിലമാണ് അതാണ് നമ്മൾ ഇതുവരെ മനസിലാക്കിയത് കാരണം എന്റെ നേട്ടം വ്യത്യസ്തമാണെങ്കിൽ എനിക്ക് ഇൻപുട്ട് വോൾട്ടേജിന്റെ വ്യത്യസ്ത മൂല്യങ്ങളും മറ്റൊരു വോൾട്ടേജ് Vd യും ഉണ്ടാകും എന്നാൽ എന്റെ നേട്ടം അനന്തമാണെങ്കിൽ വിഡി പൂജ്യവും വിഡി 0 ആണെങ്കിൽ എന്റെ നോൺ ഇൻവെന്റിംഗ് ടെർമിനൽ വിപരീത ടെർമിനലിന് തുല്യവുമാണ് ഇൻവെർട്ടിംഗ് ടെർമിനലും നോൺഇൻവർട്ടിംഗും ടെർമിനലും ഗ്രൌണ്ട് ചെയ്താൽ അതിനർത്ഥം നമ്മൾ ഒപ് ആമ്പിൻറെ രണ്ട് അറ്റങ്ങൾ അല്ലെങ്കിൽ ഒപ് ആമ്പിൻറെ രണ്ട് ഇൻപുട്ട് ടെർമിനലുകൾ ഫലത്തിൽ തമ്മിൽ യോജിക്കുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഇതാണ് സർക്യൂട്ട് ഇത് ഇൻവെർട്ടിംഗ് ടെർമിനലും ഇത് നോൺഇൻവർട്ടിംഗ് ടെർമിനലും ആണ് ഇത് Rf ആണ് ഇത് R1 ആണ് ഇത് ഗ്രൌണ്ട് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് വിർച്വൽ ഗ്രൌണ്ട് എന്ന ആശയം കാരണം ഈ പ്രത്യേക ടെർമിനൽ ഈ ടെർമിനലിന് സമാനമായിരിക്കും ഇതാണ് സർക്യൂട്ട് അതിനാൽ ഒരു വെർച്വൽ ഹ്രസ്വമുണ്ട് ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ അടിസ്ഥാനമാക്കിയാൽ വെർച്വൽ ഷോർട്ട് എന്ന ആശയം അനുസരിച്ച് വിപരീത ടെർമിനലും ഗ്രൌണ്ട് സാധ്യതയിലാണ് ഇൻവെർട്ടിംഗ് ടെർമിനലും ഗ്രൌണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല ഇൻവെർട്ടിംഗ് ടെർമിനലിനെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിനെയും ബന്ധിപ്പിക്കുന്ന കണക്ഷനോ വയറോ ഇവിടെ ഇല്ല അതിനാൽ ഇപ്പോൾ വിപരീതമല്ലാത്ത ടെർമിനൽ ഗ്രൌണ്ട് ചെയ്യുകയാണെങ്കിൽ വെർച്വൽ ഗ്രൌണ്ട് എന്ന ആശയം അനുസരിച്ച് വിപരീത ടെർമിനലും ഗ്രൌണ്ട് സാധ്യതയിലാണ് വിപരീത ടെർമിനലും നിലവും തമ്മിൽ ബന്ധമില്ലാത്തതിനാൽ ഇതിനെ വെർച്വൽ ഗ്രണ്ട് എന്നും വിളിക്കുന്നു അതിനാൽ ഓപമ്പിന്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് വിപരീത ടെർമിനലിലെ വോൾട്ടേജിന് തുല്യമാണെന്ന് നമുക്ക് യാഥാർത്ഥ്യമായി അനുമാനിക്കാം കാരണം Vd 0 ആയിരിക്കും ഇതിനർത്ഥം Vnon inverting ഉം Vinverting ഉം തുല്യമാണ് ഇത് X ആണെന്ന് കരുതുക ഇതും X ആണ് Vd എന്നത് V V അല്ലാതെ മറ്റൊന്നുമല്ല അതായത് X X അതായത് ഒരേ മൂല്യം അതിനാൽ ഇത് 0 ആയിരിക്കും അതിനാൽ ഉത്തരം 0 ഇത് 0 ആണെങ്കിൽ അതിനർത്ഥം V ഉം V ഉം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് V ഗ്രൌണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ V ഉം വെർച്വൽ ഗ്രൌണ്ടിലാണ് ഇതാണ് വെർച്വൽ ഗ്രൌണ്ട് എന്ന ആശയം അതായത് പ്രവർത്തന ആംപ്ലിഫയറിന്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് വിപരീത ടെർമിനലിലെ വോൾട്ടേജിന് തുല്യമാണെന്ന് നമുക്ക് യാഥാർത്ഥ്യമായി അനുമാനിക്കാം അതിനാൽ ഇത് വെർച്വൽ ഗ്രൌണ്ടാണ് വെർച്വൽ ഗ്രൌണ്ട് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ നമുക്ക് മറ്റ് ചില സ്വഭാവവിശേഷങ്ങൾ നോക്കാം പ്രവർത്തന ആംപ്ലിഫയറിന്റെ മറ്റ് സവിശേഷതകൾ നമുക്ക് നോക്കാം ഡിഫറൻഷ്യൽ മോഡ് നേട്ടത്തിൽ ആരംഭിക്കുന്നു അപ്പോൾ ഡിഫറൻഷ്യൽ മോഡ് നേട്ടം എന്നാൽ എന്താണ് ഡിഫറൻഷ്യൽ മോഡ് നേട്ടം നൽകുന്നത് Ad നേട്ടം ഡിഫറൻഷ്യൽ മോഡിലാണ് അതിനാലാണ് ഇത് d എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഡിഫറൻഷ്യൽ മോഡ് നേട്ടത്തിനായി ഞങ്ങൾക്ക് Ad ചിഹ്നം ഉണ്ട് ഇത് എന്താണ് രണ്ട് ഇൻപുട്ട് സിഗ്നലുകൾ തമ്മിലുള്ള വ്യത്യാസം ഒപ് ആമ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണിത് അതിനാൽ എന്റെ Vo Ad ന് തുല്യമാണെങ്കിൽ Ad എന്ന നേട്ടം ഉപയോഗിച്ചാണു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ രണ്ട് ഇൻപുട്ട് സിഗ്നലുകൾ തമ്മിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കുന്നത് അതിനെ ഡിഫറൻഷ്യൽ നേട്ടം എന്നും വിളിക്കുന്നു അതായത് എനിക്ക് Vo ഉണ്ടെങ്കിൽ ഞാൻ Ad എന്ന സമവാക്യം എഴുതുകയാണ് ഈ സാഹചര്യത്തിൽ V1 2 വോൾട്ട് V2 1 വോൾട്ട് അപ്പോൾ എന്റെ Vo മറ്റൊന്നുമല്ല Ad അതാണ് Ad1 എന്റെ Ad എന്താണ് Ad യുടെ മൂല്യത്തിന്റെ നേട്ടം എന്തായാലും എന്റെ വ്യത്യാസ വോൾട്ടേജ് ആ പ്രത്യേക നേട്ടത്താൽ വർദ്ധിപ്പിക്കും അതിനാലാണ് Ad യെ ഡിഫറൻഷ്യൽ മോഡ് നേട്ടം എന്ന് വിളിക്കുന്നത് അതിനാൽ ഡിഫറൻഷ്യൽ മോഡ് നേട്ടം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾക്കറിയാം ആശയങ്ങൾ ശരിക്കും എളുപ്പമാണ് നമ്മൾ എന്താണ് നോക്കുന്നതെന്ന് നിങ്ങൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ മനസിലാക്കാൻ വളരെ ലളിതമായ ചില സമവാക്യങ്ങളാണ് ഇത് അതിനാൽ ഡിഫറൻഷ്യൽ മോഡ് നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും ഇത് വോൾട്ടേജിന്റെ വ്യത്യാസമാണെന്നും നമ്മൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയാണെന്നും അതിനാലാണ് ഇതിനെ ഡിഫറൻഷ്യൽ മോഡ് നേട്ടം എന്നും വിളിക്കുന്നത് എന്നും അതിനാൽ ഇപ്പോൾ മറ്റൊരു ആശയം നോക്കാം അതാണ് കോമൺ മോഡ് നേട്ടം അതിനാൽ കോമൺ മോഡ് നേട്ടം കാണുമ്പോൾ ഡിഫറൻഷ്യൽ മോഡ് നേട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ അൽപ്പം വ്യത്യാസം കാണും അതിനാൽ സ്ലൈഡിൽ കോമൺ മോഡ് നേട്ടം നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് കാണുന്നത് "കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് " ഒപ് ആമ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘട്ടമാണിത് ഈ വാക്ക് വളരെ പ്രധാനമാണ് കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് ഓപ്പറേഷൻ ആംപ്ലിഫയർ വർദ്ധിപ്പിക്കും നമ്മൾ രണ്ട് ഇൻപുട്ട് വോൾട്ടേജുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ അവയെല്ലാം ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് തുല്യമാണ് അവ എല്ലാ അർത്ഥത്തിലും തുല്യമാണ് തുടർന്ന് V1 V2 അതിനാൽ ഇത് നമ്മളുടെ Vo Ad എന്ന് നൽകും V1V2 പ്രയോഗിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോഴാണ് ടെർമിനലിന്റെ ഇൻപുട്ടിൽ വോൾട്ടേജ് ഒരുപോലെയാകുന്നത് അതായത് എന്റെ Vo Ad0 ആണ് അല്ലെങ്കിൽ Vo 0 അല്ലാതെ മറ്റൊന്നുമല്ല കാരണം V1V2 ശരിയാണോ V1 V2 കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും ഇതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് എല്ലാ അർത്ഥത്തിലും തുല്യമായ രണ്ട് ഇൻപുട്ട് വോൾട്ടേജുകൾ പ്രയോഗിച്ചാൽ എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കണം എന്നാൽ പ്രായോഗിക ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു വ്യത്യാസ വോൾട്ടേജിനെ മാത്രമല്ല നിങ്ങൾ കാണുന്ന രണ്ട് ഇൻപുട്ടിന്റെ ശരാശരി കോമൺ മോഡ് നിലയെയും ആശ്രയിച്ചിരിക്കുന്നു അതായത് രണ്ട് ഇൻപുട്ട് സിഗ്നലുകളുടെ ശരാശരി താഴ്ന്ന നിലയെ Vc എന്ന് സൂചിപ്പിക്കുന്ന കോമൺ മോഡ് സിഗ്നൽ എന്ന് വിളിക്കുന്നു അതിനാൽ കോമൺ മോഡ് സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ അത് V1V22 ആണ് പ്രായോഗികമായി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോമൺ മോഡ് സിഗ്നലിന് ആനുപാതികമായി ഔട്ട്പുട്ട് വോൾട്ടേജ് ഉൽപാദിപ്പിക്കുന്നു ഔട്ട്പുട്ട് നിർമ്മിക്കുന്നതിന് കോമൺ മോഡ് സിഗ്നലിനെ ഇത് വർദ്ധിപ്പിക്കുന്ന നേട്ടത്തെ സൂചിപ്പിക്കുന്ന Acm ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കോമൺ മോഡ് നേട്ടം എന്ന് വിളിക്കുന്നു ഇതിനർത്ഥം നമ്മൾ ഒരു ആംപ്ലിഫയർ എടുക്കുമ്പോഴും സർക്യൂട്ടിൽ ആംപ്ലിഫയർ ചേർക്കുമ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് അത്തരം കോമൺ മോഡ് സിഗ്നലിന് ആനുപാതികമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് Vc ക്ക് ആനുപാതികമാണ് മാത്രമല്ല ഇത് ഈ Vc യെ വർദ്ധിപ്പിക്കുന്ന നേട്ടത്തെ കോമൺ മോഡ് നേട്ടം എന്നും വിളിക്കുന്നു ഒന്നുകിൽ Acm അല്ലെങ്കിൽ Ac കോമൺ മോഡ് നേട്ടത്തെ ചിത്രീകരിക്കുന്നു കോമൺ മോഡ് വോൾട്ടേജാണ് Vc അല്ലെങ്കിൽ Vcm ആണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ വാചകം വീണ്ടും വായിക്കാം അതിന്റെ അർത്ഥമെന്താണെന്ന് നമുക്ക് മനസ്സിലാകും പ്രായോഗികമായി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോമൺ മോഡ് സിഗ്നലിന് ആനുപാതികമായി ഔട്ട്പുട്ട് വോൾട്ടേജ് ഉൽപാദിപ്പിക്കുന്നു ഔട്ട്പുട്ട് കിട്ടുന്നതിനുവേണ്ടി കോമൺ മോഡ് സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്ന നേട്ടമാണ് ഇത് ഇതിനെ കോമൺ മോഡ് നേട്ടം Acm എന്ന് വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ എന്റെ Vo Ad യ മാത്രമല്ല V1 V2 ടേമിനെയും ആശ്രയിച്ചിരിക്കും Vd Acm Vcm എന്നിവയെയും ആശ്രയിച്ചിരിക്കും ഇപ്പോൾ ഇത് കോമൺ മോഡ് നേട്ടത്തെയും കോമൺ മോഡ് വോൾട്ടേജിനെയും ആശ്രയിച്ചിരിക്കും അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജിനായുള്ള എന്റെ പുതിയ ഫോർമുല Ad Vd Acm Vcm ആയിരിക്കും അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ കോമൺ മോഡ് സിഗ്നൽ ഉപയോഗിക്കും കോമൺ മോഡ് നിരസിക്കൽ അനുപാതം അല്ലെങ്കിൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മനസിലാക്കാൻ ഞാൻ കോമൺ മോഡ് നേട്ടവും ഡിഫറൻഷ്യൽ നേട്ടവും ഉപയോഗിക്കും ഒരു പ്രവർത്തന ആംപ്ലിഫയറിനുള്ള വളരെ പ്രധാനപ്പെട്ട പദം കോമൺ മോഡ് സിഗ്നൽ നിരസിക്കാനുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കഴിവ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന അനുപാതത്തിലൂടെ പ്രകടിപ്പിക്കുന്നു കോമൺ മോഡ് സിഗ്നൽ ആവശ്യമില്ല ഞങ്ങൾക്ക് ഡിഫറൻഷ്യൽ സിഗ്നൽ Ad Vd ആണ് ആവശ്യം ഈ സമവാക്യത്തിൽ കാണുക നമ്മൾ എന്താണ് എഴുതിയത് Ad Vd Acm Vcm Vo ഇതിന് തുല്യമാണ് വാസ്തവത്തിൽ ഞങ്ങൾക്ക് സാധാരണ മോഡ് സിഗ്നലുകൾ ആവശ്യമില്ല ഞങ്ങൾക്ക് ഡിഫറൻഷ്യൽ സിഗ്നലുകൾ മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ എനിക്ക് അനുപാതം അറിയാമെങ്കിൽ സിഎംആർആർ എന്ന അനുപാതത്തിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് കോമൺ മോഡ് സിഗ്നൽ നിരസിക്കാൻ കഴിയും സാധാരണ മോഡ് നിരസിക്കൽ അനുപാതം ഇതാണ് |AdAcm| ഡിഫറൻഷ്യൽ നേട്ടം കോമൺ മോഡ് നേട്ടത്താൽ ഹരിക്കുന്നു എന്നിട്ട് അതിൻറെ ചിഹ്നം എടുക്കാതെ യഥാർത്ഥ മൂല്യം മാത്രം എടുക്കുക അതിനാൽ സാധാരണയായി കോമൺ മോഡ് വോൾട്ടേജ് 0 ആണ് കോമൺ മോഡ് വോൾട്ടേജ് ഉണ്ടാകരുത് അതിനാൽ Acm 0 ആയിരിക്കണം Acm 0 ആണെങ്കിൽ CMRR അനന്തമല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ സാധാരണ മോഡ് വോൾട്ടേജ് നേട്ടം 0 ആണ് അതിനാൽ CMRR ന്റെ അനുയോജ്യമായ മൂല്യം അനന്തമാണ് എന്നാൽ ഒരു പ്രായോഗിക ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനായി Ad വലുതാണ് Acm ചെറുതാണ് Ad വലുതായിരിക്കണം Acm ചെറുതായിരിക്കണം അതിനാൽ CMRR ന്റെ മൂല്യവും വളരെ വലുതാണ് പ്രായോഗികമായി നമുക്ക് Acm 0 ന് തുല്യമായിരിക്കരുത് പ്രായോഗികമായി ഇത് സാധ്യമല്ല പക്ഷേ Acm 0 ന് അടുത്തായിരിക്കാം അപ്പോൾ Acm 0 ന് അടുത്താണെങ്കിൽ നമുക്ക് 0 001 എന്ന് പറയാം പിന്നെ എന്ത് സംഭവിക്കും എന്റെ CMRR വളരെ ഉയർന്നതായിരിക്കും എന്നാൽ അനന്തമല്ല സിഎംആർആർ ഡെസിബെലുകളിൽ പ്രകടിപ്പിക്കുന്നു അതായത് CMRR 20logAdAcm ആണ് ഡെസിബെലിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു മൂല്യമാണിത് അതിനാൽ ഇപ്പോൾ Vo Ad Vd Acm Vcm ആണെങ്കിൽ ഞാൻ AdVd യെ പൊതുവായതായി എടുക്കുകയാണെങ്കിൽ ഒടുവിൽ ഇതിന് സമാനമായ ഒരു സമവാക്യം എനിക്ക് ലഭിക്കും Vc ഉം Vd ഉം ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഒരു സിഎംആർആർ പ്രായോഗികമായി വളരെ വലുതാണെന്ന് ഈ സമവാക്യം വിശദീകരിക്കുന്നു Vc യും Vd യും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോഴും ഈ CMRR വളരെ വലുതാണ് ഔട്ട്പുട്ട് മിക്കവാറും വ്യത്യസ്ത സിഗ്നലിന് ആനുപാതികമാണ് കൂടാതെ സാധാരണ മോഡ് ഘടകം വളരെയധികം നിരസിക്കപ്പെടുന്നു ഇപ്പോൾ CMRR നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്തും മനസിലാക്കാൻ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അപ്പോൾ CMRR എത്ര പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കും അതിനാൽ നമുക്ക് ഒരു പ്രശ്നം ചെയ്യാം ആ പ്രശ്നം ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ നിർണ്ണയിക്കണം അതിനാൽ എന്താണ് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾ നിർണ്ണയിക്കുന്നു അതിനാൽ Vo Ad Vd Acm Vcm ഈ സൂത്രവാക്യം നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജുകൾ നൽകി ഇത് ഇൻപുട്ട് വോൾട്ടേജ് 1 ഇൻപുട്ട് വോൾട്ടേജ് 2 അതിനാൽ V1 300 മൈക്രോ വോൾട്ടുകളും V2 240 മൈക്രോ വോൾട്ടുകളും ആണ് ആംപ്ലിഫയറിന്റെ ഡിഫറൻഷ്യൽ നേട്ടം 5000 അതിനാൽ Ad 5000 ആയി നൽകിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇപ്പോൾ CMRR ന്റെ മൂല്യത്തിനായി നമുക്ക് കണക്കാക്കേണ്ട രണ്ട് മൂല്യങ്ങളുണ്ട് ആദ്യ മൂല്യം CMRR 100 ന് തുല്യമാണ് രണ്ടാമത്തെ മൂല്യം CMRR 10 ശക്തിയിലേക്ക് 5 ന് തുല്യമാണ് അതിനാൽ ആദ്യത്തേതിൽ സിഎംആർആർ 100 Vd എന്താണ് Vd V1 V2 അതിനാൽ നമ്മൾ V1 V2 എന്നിവ Vd യിൽ പ്രയോഗിക്കുക യാണെങ്കിൽ നമുക്ക് 60 മൈക്രോ വോൾട്ടുകളുള്ള Vd ലഭിക്കും എന്താണ് വിസി Vc ആണ് V1 V2 2 നമ്മൾ V1 V2 പ്രയോഗിക്കുമ്പോൾ 300 200 2 ഞങ്ങൾക്ക് 270 മൈക്രോ വോൾട്ടുകൾ ലഭിക്കും എന്താണ് CMRR CMRR AdAcm അതിനാൽ ഞങ്ങൾക്ക് 100 ന് CMRR ഉണ്ട് Ad 5000 ഇവിടെ നിന്ന് Acm ന്റെ മൂല്യം എന്താണ് നമുക്ക് Acm 50 ന് തുല്യമായിരിക്കും ഇപ്പോൾ നമുക്ക് എന്താണ് അറിയാവുന്നത് ഞങ്ങൾക്ക് Vd അറിയാം ഞങ്ങൾക്ക് Vcm അറിയാം Acm അറിയാം അപ്പോൾ നമുക്ക് Vc 313 5 മില്ലിവോൾട്ടുകൾ ലഭിക്കും ഇനി നമുക്ക് CMMR 105 ന് തുല്യമായ കണക്കുകൂട്ടൽ നടത്താം CMRR 105 ന് തുല്യമാകുമ്പോൾ ഉത്തരം എന്താണ് അതിനാൽ CMRR ന് 105 ന് തുല്യമാണ് CMRR Ad Acm ന് തുല്യമാണ് അതിനാൽ Acm 0 ഈ സമവാക്യത്തിൽ ഞാൻ ഈ മൂല്യം വീണ്ടും മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അതേപടി നിലനിൽക്കും CMRR മാത്രം 105 ആണ് അതിനാൽ Acm മാറും ഈ സാഹചര്യത്തിൽ ഞാൻ മൂല്യം മാറ്റിസ്ഥാപിക്കുമ്പോൾ ഇതാണ് പുതിയ മൂല്യം 0 05 ഇത് മുമ്പത്തെ ഉദാഹരണം പോലെ സമാന മൂല്യമാണ് അതിനാൽ ഞങ്ങളുടെ മൂല്യം 300 0135 മില്ലിവോൾട്ടുകളാണ് ഇവിടെ എന്താണ് മൂല്യം 313 5 മില്ലിവോൾട്ടുകൾ ഇവിടെ ഞങ്ങൾക്ക് 300 0135 മില്ലിവോൾട്ടുകൾ ഉണ്ട് ഇപ്പോൾ നാം കണ്ടാൽ Acm 0 ഉം ഔട്ട്പുട്ട് Ad Vd ന് തുല്യവും ആയിരിക്കണം അതിനാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ Acm Vcm എന്ന പദം ഉണ്ടാകരുത് Vo എന്നത് AdVd മാത്രമായിരിക്കണം ഇതാണ് അനുയോജ്യമായ സാഹചര്യം 100 ന് തുല്യമായ CMRR ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഔട്ട്പുട്ട് വോൾട്ടേജ് 313 5 എന്നാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 300 മില്ലിവോൾട്ടിനടുത്തായിരിക്കണം പക്ഷേ ഞാൻ CMRR ഉപയോഗിക്കുമ്പോൾ 10 ശക്തിയിലേക്ക് 5 ആയി ഉയർത്തുന്നു ഔട്ട്പുട്ട് 300 0135 ആയിരുന്നു ഇത് 300 മില്ലിവോൾട്ടിനടുത്താണ് അതിനർത്ഥം ഞാൻ CMRR വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്റെ അനുയോജ്യമായ മൂല്യത്തിന് അടുത്താണ് സുഹൃത്തുക്കളേ അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂളിനായി നമ്മൾ ഇപ്പോൾ ഇവിടെ നിർത്തും CMRR എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയാം കോമൺ മോഡ് നേട്ടം എന്താണ് എന്താണ് ഡിഫറൻഷ്യൽ നേട്ടം കോമൺ മോഡ് വോൾട്ടേജ് എന്താണ് എന്താണ് ഡിഫറൻഷ്യൽ മോഡ് വോൾട്ടേജ് നമ്മൾ ഒരു ഉദാഹരണം കണ്ടു ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഒരു പരീക്ഷയിലോ വൈവയിലോ ചോദിച്ചാൽ CMRR എന്തായിരിക്കണം ഇത് ഉയർന്നതായിരിക്കണോ കുറവായിരിക്കണോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം നൽകാൻ കഴിയും CMRR ഒരു കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ് ഇത് കോമൺ മോഡ് നേട്ടവും ഡിഫറൻഷ്യൽ മോഡ് നേട്ടവും തമ്മിലുള്ള റേഷ്യോ ആണ് ഞങ്ങൾക്ക് സാധാരണ മോഡ് സിഗ്നലുകളൊന്നും ആവശ്യമില്ലാത്തതിനാൽ CMRR വളരെ ഉയർന്നതായിരിക്കണം കോമൺ മോഡ് സിഗ്നൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്റെ CMRR വളരെ ഉയർന്നതായിരിക്കും എന്റെ CMRR ഉയർന്നതാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്റെ യഥാർത്ഥ അല്ലെങ്കിൽ അനുയോജ്യമായ മൂല്യത്തിന് സമീപമായിരിക്കും അത് Vo AdVd കാരണം വാസ്തവത്തിൽ Vo Ad Vd Acm Vcm പക്ഷേ Vo എന്നത് Ad Vd ആയിരിക്കും അതിനാൽ പ്രായോഗിക സാഹചര്യത്തിൽ Acm Vcm പരിഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും എനിക്ക് Acm Vcm നെ അവഗണിക്കാൻ കഴിയില്ല അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ CMRR വളരെ ഉയർന്നതാണെങ്കിൽ എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്റെ അനുയോജ്യമായ വോൾട്ടേജിനടുത്തായിരിക്കും അവിടെയാണ് CMRR ൻറെ പ്രാധാന്യം വരുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് CMRR എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയാം ഇത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ പാരാമീറ്ററുകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ യഥാർത്ഥ പാരാമീറ്ററായി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്കും അറിയാം വെർച്വൽ ഹ്രസ്വമെന്താണെന്നും നിങ്ങൾ കണ്ടു വളരെ പ്രധാനപ്പെട്ട പരാമീറ്റർ ആണ് വെർച്വൽ ഹ്രസ്വം ഇപ്പോൾ അടുത്ത മൊഡ്യൂളിൽ പ്രവർത്തന ആംപ്ലിഫയറിന്റെ കുറച്ച് പാരാമീറ്ററുകൾ കൂടി കാണാം അതുവരെ നിങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചു ഞാൻ പഠിപ്പിച്ചതെല്ലാം ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ കാണും